എല്ലാവർക്കും സ്വാഗതം ദുരന്ത മോചനവും മികച്ച രീതിയിലുള്ള പുനർ നിർമ്മിതിയും എന്ന പ്രഭാഷണ പരമ്പരയിലേക്ക് സ്വാഗതം ഈ പ്രഭാഷണത്തിൽ ഒരു പുനർനിർമാണ പുനരധിവാസ പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള ചില ആളുകളുടെ കാഴ്ചപ്പാട് ഞാൻ കാണിച്ചുതരാം നമ്മൾ അതിനെ "പുനർനിർമ്മാണം ജനങ്ങളുടെ കാഴ്ചപ്പാട്" എന്ന് വിളിക്കുന്നു ഗുജറാത്ത് ഭൂകമ്പ പുനരധിവാസത്തിൽ നിന്നും പുനർനിർമ്മാണത്തിൽ നിന്നും സംസാരിക്കും 2001 ൽ ഇന്ത്യയുടെ പടിഞ്ഞാറൻ ഭാഗത്ത് ഗുജറാത്ത് സംസ്ഥാനത്ത് ഒരു വലിയ ഭൂകമ്പമുണ്ടായി പ്രത്യേകിച്ച് ഭുജ് മേഖലയിൽ 1 ദശലക്ഷം ജനസംഖ്യയും ഒരു ചതുരശ്ര കിലോമീറ്ററിന് 28 ആളുകളും അക്കാലത്ത് സാക്ഷരതാ നിരക്ക് 57 ആയിരുന്നു അതിന്റെ വിസ്തീർണ്ണം 44000 ചതുരശ്ര കിലോമീറ്ററാണ് 2001 ജനുവരി 26 ന് 6 9 റിക്ടർ സ്കെയിലിൽ ഭൂകമ്പമുണ്ടായതായി ഇന്ത്യൻ കാലാവസ്ഥാ വകുപ്പ് പറയുന്നു ആ ഭൂകമ്പത്തിന്റെ പ്രഭവകേന്ദ്രം വടക്കുകിഴക്കൻ ഭാഗമായിരുന്നു ഭുജ് ടൌണിന് 20 കിലോമീറ്റർ വടക്കുകിഴക്കായി ഭൂചലനവും പ്രഭാവവും പ്രഭവകേന്ദ്രത്തിൽ നിന്ന് 1500 കിലോമീറ്റർ ദൂരം അനുഭവപ്പെട്ടു ഏകദേശം 20000 പേർ മരിക്കുകയും 160000 ആളുകൾക്ക് പരിക്കേൽക്കുകയും ചെയ്തു ഭൂകമ്പം മൂലമുണ്ടായ ആസ്തി നഷ്ടം നമുക്ക് കാണാൻ കഴിയും കച്ചിലെ ഭവന മേഖലയ്ക്കാണ് ഏറ്റവും കൂടുതൽ നാശനഷ്ടമുണ്ടായതായി കണക്കാക്കപ്പെട്ടത് 2 5 ലക്ഷം വീടുകൾ കെട്ടിടങ്ങൾ പാർപ്പിട കെട്ടിടങ്ങൾക്ക് ഭാഗികമായി കേടുപാടുകൾ സംഭവിച്ചു 1 28 ലക്ഷം റെസിഡൻഷ്യൽ കെട്ടിടങ്ങൾ പൂർണമായും തകർന്നു ആകെ നാശനഷ്ടം 3 79 ലക്ഷം 20000 പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടു ഗുരുതരമായി പരിക്കേറ്റവർ 20000 1 66 ലക്ഷം പേർക്ക് പരിക്കേറ്റു ധാരാളം കന്നുകാലികൾ ചത്തൊടുങ്ങിയിട്ടുണ്ട് ഗുജറാത്ത് ഭൂകമ്പത്തിന്റെ ചില ചിത്രങ്ങൾ ഇവിടെയുണ്ട് അവിടെ സംഭവിച്ച വിനാശങ്ങൾ നിങ്ങൾക്ക് കാണാൻ കഴിയും കൂടാതെ നിങ്ങളുടെ റഫറൻസുകൾക്കായി ഈ ചിത്രങ്ങളിലൂടെ വിനാശങ്ങൾ എല്ലായിടത്തും ഉണ്ടെന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയും ഗ്രാമങ്ങളിലും വിദൂര പ്രദേശങ്ങളിലും നഗരപ്രദേശങ്ങളിലും സംഭവിച്ചിരിക്കുന്നതും കാണാം അതിനാൽ ഗുജറാത്ത് ഭൂകമ്പത്തെത്തുടർന്ന് ഗുജറാത്ത് സർക്കാർ പുനരധിവാസവും പുനർനിർമാണ നയവും പ്രഖ്യാപിച്ചു നമ്മൾ ഇവിടെ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് ഭവന മേഖലയിലാണ് പാർപ്പിട കെട്ടിടങ്ങൾക്ക് പ്രധാനമായും 2 പാക്കേജുകൾ ലഭ്യമാണ് ഒന്ന് 70 ത്തിലധികം കെട്ടിടങ്ങൾക്ക് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഭാഗികമായി കേടുപാടുകൾ സംഭവിക്കുകയോ പൂർണ്ണമായും കേടുപാടുകൾ സംഭവിക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഗ്രാമം മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റപ്പെടും തീർച്ചയായും അത് ഗ്രാമസഭയുടെ സമ്മതത്തെ ആശ്രയിച്ചിരിക്കുന്നു അവിടെയും അവർ ഭൂകമ്പ പ്രതിരോധശേഷിയുള്ള അടിസ്ഥാന സൌകര്യങ്ങൾ നിർമ്മിക്കും കൂടാതെ സംസ്ഥാന സർക്കാർ പുനർ നിർമ്മാണത്തിനുള്ള ലേയൌട്ട് ഡിസൈൻ സാങ്കേതിക സവിശേഷതകൾ മെറ്റീരിയൽ ചേരുവകളുടെ ഘടന എന്നിവ നൽകും ഏതെങ്കിലും എൻജിഒ ഒരു ഗ്രാമം ദത്തെടുക്കാൻ പോകുകയാണെങ്കിൽ ഏറ്റവും കുറഞ്ഞ സംഭാവനകൾ അവരുടെ സംഭാവന മൊത്തം ചെലവിന്റെ 50 ആയിരിക്കണം ഇപ്പോൾ ഇത് അടിസ്ഥാനപരമായി സ്ഥലംമാറ്റത്തിനുള്ളതാണ് മറ്റ് പാക്കേജ് ഇൻ സിറ്റുവിനായി നൽകിയിട്ടുണ്ട് അതായത് ഗ്രാമം ഭാഗികമായോ പൂർണ്ണമായും തകർന്നതോ നാശോന്മുഖമായതോ കേടുപാടുകൾ സംഭവിച്ചതോ ആണെങ്കിൽ അവിടെ ആളുകൾ മറ്റൊരു സ്ഥലത്തേക്ക് മാറാൻ ആഗ്രഹിക്കുന്നില്ലെങ്കിൽ ആ സ്ഥലത്ത് തന്നെ ചെയ്യുന്ന വികസനമായിരിക്കും കെട്ടിടങ്ങളുടെ ഉടമകൾ അവർക്ക് സ്വന്തമായി വീട് പണിയാൻ താൽപ്പര്യമുണ്ടെങ്കിൽ സർക്കാർ അവർക്ക് നേരിട്ട് ധനസഹായം നൽകും സഹായം ഉടമകൾക്ക് നേരിട്ട് നൽകുന്നതാണ് എങ്കിൽ ചെലവിന്റെ 50 ആയിരിക്കും അത് അതിനുമുമ്പ് ഒരു സംഘം സർക്കാർ ഉദ്യോഗസ്ഥർ നാശനഷ്ടങ്ങൾ വിലയിരുത്തും അനുവദിച്ച പണം 3 ഘട്ടങ്ങളായി നൽകും ആദ്യം പദ്ധതിയുടെ അനുമതിക്ക് ശേഷം അവർക്ക് 40 ലഭിക്കും ഏകദേശം 30 അല്ലെങ്കിൽ 40 പണം നിങ്ങൾക്ക് ഈ ഗ്രാഫിൽ കാണുന്നതുപോലെ നിങ്ങൾ ലിന്റൽ ലെവൽ പൂർത്തിയാക്കുമ്പോൾ നിങ്ങൾക്ക് മറ്റൊരു 40 അല്ലെങ്കിൽ 35 മുഴുവൻ പുനർനിർമ്മാണവും പൂർത്തിയായ ശേഷം ബാക്കി പണം നൽകും ഭൂരഹിതരായ കാർഷിക തൊഴിലാളിയെ സംബന്ധിച്ചിടത്തോളം നിർമ്മിക്കുന്ന വീടിൻറെ സ്ഥല വിസ്തീർണ്ണം 100 ചതുരശ്ര മീറ്റർ നിർമ്മാണ വിസ്തീർണ്ണം 30 ചതുരശ്ര എന്നിങ്ങനെ വിവിധ തരത്തിലുള്ള സഹായങ്ങളുടെ വിഭാഗമാണിത് മീറ്റർ നാമമാത്ര കർഷകർക്കാണ് 1 ഹെക്ടർ വരെ ഭൂവുടമസ്ഥത ഉള്ളത് അവർക്ക് 150 ചതുരശ്ര മീറ്റർ വിസ്തീർണ്ണവും 40 ചതുരശ്ര മീറ്റർ നിർമാണ പ്രദേശവും ലഭിക്കും ചെറുകിട കർഷകന് 1 മുതൽ 4 ഹെക്ടർ വരെ ഭൂവുടമസ്ഥത ഉള്ളവർക്ക് സ്ഥല വിസ്തീർണ്ണം 250 ചതുരശ്ര മീറ്റർ നിർമാണ പ്രദേശം 40 ചതുരശ്ര മീറ്ററും ആയിരിക്കും 4 ഹെക്ടറിൽ കൂടുതൽ ഭൂമി കൈവശമുള്ള കർഷകർക്ക് 400 ചതുരശ്ര മീറ്റർ സ്ഥല വിസ്തീർണ്ണവും നിർമാണ വിസ്തീർണ്ണം 50 ചതുരശ്ര മീറ്ററും ലഭിക്കും നാശനഷ്ടങ്ങളുടെ വിലയിരുത്തലിന് അവർക്ക് വ്യത്യസ്ത വിഭാഗങ്ങളുണ്ട് ജി 5 മുതൽ ജി 1 വരെ അതിനാൽ വീട് പൂർണ്ണമായും നശിച്ച ജി 5 ന് അവർക്ക് ആ സമയം 3000 രൂപയും ചതുരശ്ര മീറ്ററിന് ഇന്ത്യൻ രൂപ പരമാവധി 1 ലക്ഷം വരെയും തുടർന്ന് ബാക്കിയും ലഭിക്കും മറ്റ് കുടിലുകളുള്ളവർക്ക് അവർക്ക് 7000 ലഭിക്കും അതിനാൽ യഥാർത്ഥത്തിൽ ഗുജറാത്ത് പുനരധിവാസത്തിന്റെയും പുനർനിർമ്മാണത്തിന്റെയും ലക്ഷ്യങ്ങളിലൊന്ന് ജനകേന്ദ്രീകൃത പുനർനിർമാണവും പുനരധിവാസവും എന്നതാണ് പ്രോഗ്രാം ജനകേന്ദ്രീകൃതമായിരിക്കണം പുനരധിവാസത്തെയും പുനർനിർമ്മാണത്തെയും കുറിച്ച് ഇവിടെ സൂചിപ്പിച്ച 2 പാക്കേജുകൾ പുനരധിവാസത്തിന്റെയും പുനർനിർമ്മാണത്തിന്റെയും വ്യത്യസ്ത സമീപനങ്ങളിൽ നിന്ന് ഉയർന്നുവന്നേക്കാം പക്ഷേ ഗുജറാത്തിലെ പുനരധിവാസത്തിന്റെയും പുനർനിർമ്മാണത്തിന്റെയും നിരവധി പ്രമുഖ മാതൃകകളിൽ നിന്നോ സമീപനങ്ങളിൽ നിന്നോ നമുക്ക് യഥാർത്ഥത്തിൽ വളരെ പ്രധാനപ്പെട്ട മൂന്ന് മാതൃകകൾ തുടങ്ങുവാൻ കഴിയും ഒന്ന് പാക്കേജ് 2 ൽ നിന്നുള്ളതാണ് ഉടമ നയിക്കുന്ന സമീപനം അങ്ങനെയാണെങ്കിൽ ഗ്രാമീണർ സ്വന്തമായി ഒരു വീട് പണിയാൻ തീരുമാനിച്ചാൽ അവർക്ക് സർക്കാരിൽ നിന്ന് പണം ലഭിക്കും അവർ സ്വന്തമായി ഒരു വീട് നിർമ്മിക്കും അവർക്ക് ഒരു സഹായം ലഭിക്കും ഭൌതികവും സാമൂഹികവുമായ അടിസ്ഥാന സൌകര്യങ്ങൾ സ്ഥാപിക്കാനും പുനർനിർമ്മിക്കാനും സർക്കാർ അവരെ സഹായിക്കും കൂടാതെ ഉടമകൾ സഹായം നേടിക്കൊണ്ട് അവർ സ്വന്തമായി ഒരു വീട് നിർമ്മിക്കും അവർക്ക് അവരുടെ പണം സംഭാവന ചെയ്യാനും കഴിയും ഇതിനെ നാം ഉടമസ്ഥർ നയിക്കുന്നത് എന്ന് വിളിക്കുന്നു കൂടാതെ മറ്റു 2 തരം എൻജിഒ അല്ലെങ്കിൽ കരാറുകാരൻ നയിക്കുന്ന സമീപനവുമുണ്ട് ഒന്ന് ഉൽപ്പന്ന കേന്ദ്രീകൃത സമീപനവും ജനകേന്ദ്രീകൃത സമീപനവുമാണ് ഉൽപ്പന്ന കേന്ദ്രീകൃതമായ ഈ സമീപനം എൻജിഒ തന്നെ ചെയ്യുന്നിടത്താണ് ഇത് പ്രധാനമായും എൻജിഒ നയിക്കുന്നതോ ഏജൻസി നയിക്കുന്നതോ ആണ് ജനങ്ങളും സ്വകാര്യ ഏജൻസികളും എൻജിഒകളും തമ്മിലുള്ള പങ്കാളിത്തത്തിന്റെ സഹകരണം പോലെയാണ് ജനകേന്ദ്രീകൃത സമീപനം നമുക്ക് ആകെ 3 തരം മോഡലുകൾ ഉണ്ട് 1 2 3 അതിനാൽ പാക്കേജ് നമ്പർ 2 ൽ നിന്ന് ഒരു പാക്കേജ് ഉണ്ടെന്നും ഉടമ നയിക്കുന്നതായും ഇവിടെ വ്യക്തമായി കാണാം പാക്കേജ് നമ്പർ 1 മുതൽ എൻജിഒ നയിക്കുന്നതും കമ്മ്യൂണിറ്റി എൻജിഒ പങ്കാളിത്ത സമീപനവുമുള്ള എണ്ണംരണ്ടെണ്ണം ഉണ്ട് അവർ ഗുജറാത്തിൽ എന്താണ് ചെയ്തത് ദുരന്താനന്തര ഇടപെടലുകൾക്ക് മരണപ്പെട്ട ഓരോരുത്തരുടെയും അടുത്ത ബന്ധുക്കൾക്ക് ഒരു ലക്ഷം രൂപയും ഒരു കുടുംബത്തിന് 1250 രൂപയും നൽകി ഗാർഹിക കിറ്റുകൾ നൽകി കന്നുകാലികൾ മരിക്കുകയാണെങ്കിൽ ആട് 150 കാള 750 രൂപ പശു 2500 എന്നിങ്ങനെ വ്യത്യസ്ത തുക നൽകി ഷെൽട്ടർ പുനർനിർമ്മാണം ചില റിപ്പോർട്ടുകൾ ഇപ്പോൾ കച്ചിലെ ഭവന പുനർനിർമ്മാണത്തിന്റെ പുരോഗതി മൊത്തം നശിച്ച വീടുകളുടെ എണ്ണം കച്ച് പ്രദേശത്തേക്കാൾ 156000 കൂടുതലാണ് എൻജിഒ ആസൂത്രണം ചെയ്തത് 50000 ത്തോളം വരും നിർമ്മാണ ഘട്ടത്തിലുള്ള വീട് ഇപ്പോൾ ഏകദേശം 40000 പൂർത്തിയാക്കി 2003 ൽ 6000 ൽ കൂടുതൽ ഉടമസ്ഥൻ നയിക്കുന്ന സ്വയം നിർമ്മാണം അടിസ്ഥാനപരമായി ഏകദേശം 96000 മുതൽ 97000 വരെയാണ് കൂടാതെ നിർമ്മിച്ച മൊത്തം വീടുകൾ അന്ന് 135000 ആയിരുന്നു പുനർനിർമ്മാണ രീതി എൻജിഒ നിർമ്മാണങ്ങൾ എൻജിഒയുടെ കാര്യത്തിൽ പോലും 56 അവിടെത്തന്നെയുള്ള നിർമ്മാണമായിരുന്നു വലിയൊരു ശതമാനം മാറ്റിസ്ഥാപിക്കപ്പെട്ടവയാണ് ഉടമസ്ഥർ നയിക്കുന്നതോ സ്വയം നിർമ്മിച്ചതോ ആയ ഭൂരിപക്ഷവും സ്ഥലത്തുണ്ടായ വികസനമാണെങ്കിൽ 22 മാത്രം മാറ്റിസ്ഥാപിച്ച കെട്ടിടങ്ങളാണ് ആകെ 102 എൻജിഒകൾ 100 എൻജിഒകൾ പുനർനിർമ്മാണത്തിൽ ഏർപ്പെട്ടിരുന്നു അവയിൽ 65 എണ്ണം "പൊതു സ്വകാര്യ പങ്കാളിത്ത" പരിപാടിയുടെ ഭാഗമാണ് അതിൽ 37 എണ്ണം പ്രാദേശിക ജനങ്ങളുമായി കൂടുതൽ സഹകരണമില്ലാതെ സ്വതന്ത്രമായി പ്രവർത്തിക്കുന്നു 2003 ഓടെ മൊത്തം ഭവനനിർമ്മാണത്തിന്റെ 82 ജോലികൾ പൂർത്തിയായതായി റിപ്പോർട്ടുചെയ്തു 96000 അല്ലെങ്കിൽ അതിൽ കൂടുതൽ G4 G5 കേടായ വിഭാഗത്തിൽ ഉടമസ്ഥർ അല്ലെങ്കിൽ സ്വയം നിർമാണ വീട് എൻജിഒ പുനർനിർമ്മിച്ച വീടുകൾ 31000 ആയിരുന്നു ഇപ്പോൾ പുതിയ വീടുകളുടെ കാര്യത്തിൽ മുറികളിലെ വ്യത്യാസം എന്തായിരുന്നു അത് വർദ്ധിക്കുകയോ കുറയുകയോ അതേപോലെ തുടരുകയോ ചെയ്യുന്നുണ്ടോ എൻജിഒ നിർമ്മിക്കുമ്പോൾ വർദ്ധനവ് ഏകദേശം 20 ആണ് അവർക്ക് കൂടുതൽ ബിൽറ്റ് അപ്പ് ഏരിയ അല്ലെങ്കിൽ 20 മുറികൾ ലഭിക്കുന്നതിന് മുമ്പ് ഉണ്ടായിരുന്നതിനേക്കാൾ കൂടുതൽ കേസുകൾ സമാനമാണ് മാത്രമല്ല 20 വർദ്ധനവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ 27 ഗണ്യമായി കുറയുന്നു അതേസമയം ഉടമസ്ഥൻ നയിക്കുന്ന കേസ് മൊത്തം വിസ്തീർണ്ണം അത് വളരെയധികം വർദ്ധിച്ചില്ല വളരെയധികം കുറയുന്നില്ല ഇത് മിക്ക കേസുകളും സമാനമായി തുടരുന്നു പുനർനിർമാണ വീടിന്റെ ഉപയോഗം 2003 ലെ ഒരു അഭിയാൻ സർവേ പ്രകാരം അവർ ശരിക്കും ഈ വീടുകൾ ഉപയോഗിക്കുന്നുണ്ടോ എൻജിഒ വീടുകൾ ആളുകൾ വളരെ ഗണ്യമായി ഉപയോഗിക്കുന്നുണ്ട് തീർച്ചയായും ഉടമസ്ഥർ നയിച്ചതും എന്നാൽ എൻജിഒ നിർമ്മിച്ച ചിലത് 20 ഉപയോഗിക്കുന്നില്ല എൻജിഒ നിർമ്മിച്ച വീടിന്റെ വിസ്തീർണ്ണം ഈ പട്ടികയിൽ നിന്നും 200 മുതൽ 350 വരെ എന്ന് കാണാൻ കഴിയും ഇത് ഏകദേശം 50 മൊത്തം സ്റ്റോക്കിന്റെ 60 ഇത് 350 മുതൽ 450 വരെ അല്ലെങ്കിൽ മുകളിലാണ് ഇത് ഏകദേശം 35 അല്ലെങ്കിൽ അതിൽ കൂടുതലാണ് അഭിയാൻ 2003 ലെ സർവേ പ്രകാരം സംതൃപ്തിയുടെ അളവ് എൻജിഒ നിർമ്മിച്ച കെട്ടിടങ്ങൾ 80 സംതൃപ്തരാണെന്നും ഉടമസ്ഥർ നയിക്കുന്ന സാഹചര്യത്തിൽ 91 പേർ സംതൃപ്തരാണ് സ്കൂളിന്റെ നില കൂടുതലും പതിവായതും ചിലത് ക്രമരഹിതവുമാണ് ഇവിടെയും എൻജിഒ നിർണയിക്കുന്ന ഒരു യൂണിറ്റിന്റെ വില ഒരു ചതുരശ്ര അടിക്കാണ് പഠന മേഖല ഞങ്ങൾ 3 മേഖലകളിൽ സർവേകൾ നടത്തി വ്യത്യസ്ത സമീപനങ്ങളിലും മോഡലുകളിലും അവയുടെ കേസ് പഠനങ്ങളിലും കാണിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു അതിലൊന്നാണ് ഹജാപറിലെ എൻജിഒ ഏജൻസി നയിക്കുന്ന സമീപനം അതായത് ഭുജിൽ നിന്ന് 52 കിലോമീറ്റർ തെക്ക് ഗ്രാമത്തിന്റെ വിസ്തീർണ്ണം കാർഷിക ഭൂമി ഉൾപ്പെടെ മൊത്തം 4 ചതുരശ്ര കിലോമീറ്ററാണ് ജനസംഖ്യ 720 കുടുംബ വലുപ്പം 6 5 സാക്ഷരത 35 അവരുടെ പ്രധാന കൃഷി മൃഗസംരക്ഷണവും കൃഷിയുമാണ് ഹജാപറിന്റെ പഴയ വാസസ്ഥലമായിരുന്നു ഇത് നിങ്ങൾക്ക് ഈ ജൈവ വാസസ്ഥലങ്ങൾ കാണാൻ കഴിയും മഞ്ഞ നിറങ്ങൾ പാർപ്പിട മേഖലയാണ് ഈ പച്ച കാർഷിക മേഖലകളും നീല പൊതു പ്രദേശങ്ങൾ അർദ്ധ പൊതു പ്രദേശങ്ങളുമാണ് കമ്മ്യൂണിറ്റികളുടെ വിതരണം ഹരിജന്മാരും മുസ്ലിംകളും അവർ പ്രാന്തപ്രദേശത്തുള്ളവരാണ് അവർ ഒരു വിഭാഗത്തിൽപ്പെട്ടവരാണ് അവർ ഒരു വിഭാഗത്തിൽ ജീവിക്കാൻ ഇഷ്ടപ്പെടുന്നു കൂടാതെ മറ്റൊരു ജാതി മഹേശരി അവർ ഒരു മേഖലയിലാണ് ഇവരാണ് നമുക്ക് കാണാൻ കഴിയുന്ന 3 ഗ്രൂപ്പുകളുടെ വിഭാഗം വൈദ്യുതി ലൈൻ വിദ്യാഭ്യാസ സൌകര്യങ്ങൾ ഒരു പ്രൈമറി സ്കൂൾ ആരോഗ്യ സൌകര്യങ്ങൾ ഒരു ആരോഗ്യ കേന്ദ്രം പഞ്ചായത്ത് കെട്ടിടം രണ്ട് ക്ഷേത്രങ്ങൾ ഒരു പള്ളി എന്നിവയെല്ലാം തകർന്നു 2001 ലെ ഭൂകമ്പത്തിൽ 80 വീടുകളും പൂർണ്ണമായും തകർന്നു പുനർനിർമ്മാണങ്ങൾ അതിനാൽ ഭൂകമ്പത്തിന് മുമ്പുണ്ടായിരുന്ന ലേയൌട്ട് ആയിരുന്നു ഇത് പുതുതായി സ്ഥിതിചെയ്യുന്ന ഗ്രാമ ലേയൌ ട്ടായിരുന്നു ഇത് ഈ മഞ്ഞ നിറങ്ങൾ ഉപേക്ഷിക്കപ്പെട്ട സ്ഥലങ്ങളാണെന്നും ഈ പ്രദേശത്ത് ചില ആളുകൾക്ക് ഭൂമിയുടെ അവകാശമില്ലെന്നും അവർക്ക് ഔപചാരിക ഭൂമി അവകാശങ്ങളില്ലെന്നും ധാരാളം ആളുകൾ അവർ അത് മാറ്റിസ്ഥാപിച്ചിട്ടില്ലെന്നും ഇവിടെ കാണാം അവർ സ്വന്തമായി അവരുടെ വീടുകൾ നിർമ്മിച്ചു ചില ആളുകൾ ഒരു ചെറിയ കൂട്ടം ആളുകൾ മാത്രം അവർ അത് മാറ്റിസ്ഥാപിച്ചില്ല ഇരുണ്ട മെറൂണിലെ ഒരു ചെറിയ സംഘം മാത്രം അവരെ മാറ്റി പാർപ്പിച്ചു ഇത് പുതിയവയിൽ താമസിക്കുന്നവരുടെ എണ്ണം പുതിയതായി നിർമ്മിച്ച ഈ വീട് ശൂന്യമായി കിടക്കുന്നതായി നിങ്ങൾക്ക് കാണാം പാർപ്പിട യൂണിറ്റുകളുടെ വില 120000 ഇന്ത്യൻ രൂപയായിരുന്നു ആ സമയം താരതമ്യേന വളരെ ഉയർന്നതാണ് അതിനാൽ മിക്ക വീടുകളും ഒഴിഞ്ഞുകിടക്കുന്നു നിങ്ങൾക്ക് മഞ്ഞ നിറത്തിലുള്ള ഭാഗം മാത്രമേ ആളുകൾ താമസിക്കുന്നുള്ളൂ കൂടാതെ പലരും യഥാർത്ഥത്തിൽ പുതുതായി നിർമ്മിച്ച വീട്ടിലേക്ക് മാറ്റിസ്ഥാപിച്ചിട്ടില്ലെന്നും കാരണം ഇത് തികച്ചും വ്യത്യസ്തമായ ഒരു ലേയൌട്ടാണെന്നും ആളുകൾ അത് സ്വീകരിച്ചില്ലെന്നും നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും അവർക്ക് ആരോഗ്യ കേന്ദ്രമുണ്ട് പക്ഷേ ആളുകൾ അത് ഉപയോഗിക്കുന്നില്ല ആയുർവേദ ആരോഗ്യ കേന്ദ്രവും ഇത് ആളുകൾ ഉപയോഗിക്കുന്നില്ല സ്കൂളുകൾ പ്രാഥമികമായി ഉണ്ട് പ്രൈമറി സ്കൂൾ ഇത് നന്നായി പ്രവർത്തിക്കുന്നു ആളുകൾ ഇത് ഉപയോഗിക്കുന്നു ആളുകൾ അവരുടെ കുട്ടികളെ അവിടേക്ക് അയയ്ക്കുന്നു പഞ്ചായത്ത് ഓഫീസ് പുനർനിർമിക്കുന്നു വൈദ്യുതി സ്ഥാപിച്ചു ടെലികമ്മ്യൂണിക്കേഷൻ സംവിധാനം സ്ഥാപിച്ചു നിർമ്മാണങ്ങൾ സമ്പന്നരായ അവർ മെച്ചപ്പെട്ട സ്ഥലത്തേക്ക് മാറിയിട്ടില്ല കേടുവന്ന ഭാഗത്ത് അവർ സ്വന്തമായി വീട് പണിയുന്നു ഭൂമിയുടെ കാലാവധി അവകാശമില്ലാത്ത ചില ആളുകൾ അവർ താൽക്കാലിക വീടുകൾ നിർമ്മിക്കുകയോ താൽക്കാലിക വീടുകൾ നേടുകയോ അവിടെ അവശേഷിക്കുകയോ ചെയ്യുന്നു പുനർനിർമ്മാണ പദ്ധതികളിൽ അവരെ ഉൾപ്പെടുത്തിയിട്ടില്ല പുതുതായി നിർമ്മിച്ച പ്രോജക്ടുകളും ശൂന്യമായി തുടരുന്നു കാരണം ഈ ആളുകൾ ഒരുമിച്ച് താമസിക്കാൻ ഇഷ്ടപ്പെട്ടു ഈ പുതിയ ഗ്രിഡ് അയൺ പാറ്റേൺ ലേയൌട്ടിന് അവർക്ക് ഇഷ്ടപ്പെട്ടില്ല ഇത് ചെയ്തത് ഹിന്ദുസ്ഥാൻ ബെനവലന്റ് ആണ് പരിശീലന പരിപാടി ഉണ്ടായിരുന്നില്ല എൻജിഒയ്ക്ക് നേരിട്ട് ധനസഹായം അനുവദിക്കുകയും തീരുമാനമെടുക്കുകയും ചെയ്തു ഗ്രാമങ്ങൾ തീരുമാനമെടുക്കൽ പ്രക്രിയയിൽ പങ്കാളികളായില്ല സർക്കാർ പുതിയ സൈറ്റിനായി ഭൂമി നൽകി ഗ്രാമവാസികൾ അതിന്റെ ഒരു ജോലിയിലും പങ്കെടുത്തില്ല ഗ്രാമീണർക്ക് സാമ്പത്തികമായി ഒരു സംഭാവനയും ഇല്ല പുനർനിർമാണത്തിനായി അവർ അധ്വാനവും നൽകിയില്ല കെട്ടിട നിർമാണ സാമഗ്രികൾ ഈ പുനർനിർമ്മാണത്തിനുള്ള എല്ലാ നിർമാണ സാമഗ്രികളും പ്രാദേശികമായി ലഭ്യമായ നിർമാണ സാമഗ്രികളായിരുന്നു കരാറുകാരൻ കെട്ടിടസാമഗ്രികൾ പുറത്തു നിന്ന് വാങ്ങി എൻജിഒ രൂപകൽപ്പന ചെയ്തത് ആളുകളുടെ പങ്കാളിത്തമില്ലാതെ ഇത് പൂർത്തിയാക്കാൻ 1 വർഷം 2 മാസമെടുത്തു പദ്ധതിയിൽ സ്ത്രീ പങ്കാളിത്തം ഇല്ലായിരുന്നു 40 ചതുരശ്ര മീറ്റർ പാർപ്പിട യൂണിറ്റിന് ഒരു ലക്ഷം രൂപ ചിലവും 30 ചതുരശ്ര മീറ്റർ വീടുകളുടെ കാര്യത്തിൽ 80000 രൂപ സംഘടനകൾ എൻജിഒയും സർപഞ്ചും പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾ നിരീക്ഷിച്ചെങ്കിലും എൻജിഒയാണ് തീരുമാനമെടുത്തത് അതിനാൽ എൻജിഒ രൂപകൽപ്പന ചെയ്ത പ്രാദേശിക വിഭവങ്ങളുടെ ഉപയോഗമോ പരിശീലന പരിപാടിയോ ഇല്ല എൻജിഒ എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നു വളരെ ദുർബലമായ ഓർഗനൈസേഷൻ സജ്ജീകരണവും ഉടമസ്ഥാവകാശത്തിന്റെ അഭാവവും ആളുകൾ ഇത് നിരസിക്കുന്നു കൂടാതെ നിരീക്ഷണത്തിൻറെ അഭാവവും തൽഫലമായി ഈ പദ്ധതി വളരെ ഉയർന്ന ചിലവായിരുന്നു കൂടുതൽ സമയവും എടുത്തു പക്ഷേ ഇത് സാമൂഹികമായി അംഗീകരിക്കപ്പെടാത്ത മാർഗ്ഗമായിരുന്നു ഇത് ഗ്രാമങ്ങൾ നിരസിച്ചു ജനങ്ങളുടെ അവബോധം വർദ്ധിപ്പിക്കുന്നതിന് പദ്ധതി സഹായിച്ചില്ല കൂടാതെ വീടുകൾ മോശമായി പരിപാലിക്കപ്പെടുന്നു അതിനാൽ യഥാർത്ഥത്തിൽ അത് അവരുടെ ദുർബലതയും കമ്മ്യൂണിറ്റികളും എൻജിഒകളും തമ്മിലുള്ള അവിശ്വാസം വിദ്യാഭ്യാസത്തിന്റെ അഭാവം എന്നിവ വർദ്ധിപ്പിച്ചു കരാർ നയിക്കുന്ന സമീപനത്തിന്റെ കാര്യത്തിൽ ഇത് ഉണ്ടായിരുന്നു കമ്മ്യൂണിറ്റി എൻജിഒ പങ്കാളിത്ത സമീപനത്തിൽ നമുക്ക് ലുദിയ ഗ്രാമമുണ്ട് ബുജിൽ നിന്ന് 100 കിലോമീറ്റർ വടക്കായി വിസ്തീർണ്ണം 5 ചതുരശ്ര കിലോമീറ്ററാണ് മൊത്തം ജനസംഖ്യ 1800 ആണ് പ്രധാനമായും ഹരിജന്മാരും മുസ്ലീങ്ങളും സാക്ഷരതാ നിരക്ക് 35 ആയിരുന്നു മൃഗസംരക്ഷണം മരം കൊത്തുപണി കൃഷി എന്നിവയായിരുന്നു പ്രധാന ജോലികൾ ഭൂരിഭാഗം ആളുകളും കന്നുകാലികളെ വളർത്തുന്നതിലും മരപണിയിലും ഏർപ്പെട്ടിരിക്കുന്നതായി നിങ്ങൾക്ക് കാണാൻ കഴിയും അതിനാൽ അവരിൽ 50 കന്നുകാലികളെ വളർത്തുന്നതിലും മൃഗസംരക്ഷണത്തിലും ഏർപ്പെടുന്നു 20 കാർഷിക മേഖലയിലും ഏർപ്പെടുന്നു സമുദായത്തിന്റെ വിതരണത്തിലും വേർതിരിവ് വളരെ വ്യക്തമായി കാണുവാൻ സാധിക്കും ഹരിജന്മാർ അവിടെ ഇവിടെ മുസ്ലീങ്ങളുമാണ് ഈ രണ്ട് സമുദായങ്ങളിലും അടിസ്ഥാനപരമായി 2500 മുതൽ 5000 വരെ ഇന്ത്യൻ രൂപയ്ക്ക് ജീവിക്കുന്ന പാവപ്പെട്ട ഒരു ദരിദ്ര സമൂഹമുണ്ട് ഏകദേശം 90 ഈ വിഭാഗത്തിൽപ്പെടുന്നു വൈദ്യുതി വിതരണം വിദ്യാഭ്യാസ സൌകര്യങ്ങൾ ഒരു പ്രാഥമിക വിദ്യാലയം ഇവയെല്ലാം ഈ ഭൂകമ്പത്തിൽ തകർന്നു ഇവിടെ ലുദിയ ഗ്രാമത്തിൽ വീടുകളുടെ കേടുപാടുകൾ വിശദമായി നോക്കാം മുഴുവനായി നശിപ്പിക്കപ്പെട്ട ഭുന്ഗസ് 5 എണ്ണം ആയിരുന്നു എന്നാൽ കച്ഛ പക്ക വീടുകളുടെ എണ്ണം വളരെ അധികമാണ് അതേസമയം ഭുന്ഗസ് ചെറിയ കേടുപാടുകൾ അല്ലെങ്കിൽ റിപ്പയർ ചെയ്യാവുന്ന നാശനഷ്ടങ്ങളോ ആയിരുന്നു പക്ഷേ കച്ചയിലും പക്കയിലും ഏറ്റവും കൂടുതൽ ബാധിക്കപ്പെട്ടു പുനർനിർമ്മാണങ്ങൾ മൊത്തം 235 വീടുകൾ പുനർനിർമിച്ചു ഓരോ കുടുംബത്തിനും 2 പരമ്പരാഗത ഭുംഗകൾ നൽകി ഭൂകമ്പത്തെ പ്രതിരോധിക്കാൻ സാധ്യതയുള്ളതും ചുഴലിക്കാറ്റിനെ പ്രതിരോധിക്കുന്നതുമായ ഭുങ്കാസ് ശൈലി ഇത് ഭൂകമ്പത്തെ ബാധിച്ചിട്ടില്ലെന്ന് നാം കണ്ടെത്തി ഈ രീതി എൻജിഒകളുടെ സഹായത്തോടെ ആളുകൾ ഈ ഭുങ്കകളെ പുനർനിർമ്മിച്ചു കൂടാതെ ചൌക്കി കൂടാതെ പ്രത്യേക ടോയ്ലറ്റിനും ബാത്ത്റൂമിനും സൌകര്യമുണ്ട് ഓരോ വീടുകൾക്കും 2 ഭുങ്കകൾ 1 ചൌക്കി ഒരു ടോയ്ലറ്റ് എന്നിവ ലഭിച്ചു കൂടാതെ ഗ്രാമത്തിലൂടെ 170 മീറ്റർ വൈദ്യുതി കണക്ഷനുകൾ നൽകി ഇപ്പോൾ മുംവാര ഗ്രൂപ്പ് ജലവിതരണ പദ്ധതി വഴി വെള്ളം വിതരണം ചെയ്യുന്നു ഗ്രാമീണർക്ക് ജലവിതരണം ടെലികമ്മ്യൂണിക്കേഷൻ 11 വീടുകൾ 2 പ്രൈമറി സ്കൂളുകൾ അംഗൻവാഡികൾ എന്നിവ പുനർനിർമിച്ചു എല്ലാ സ്കൂളുകളും ലുഡിയയിൽ പുനർനിർമിച്ചു സമീപസ്ഥല ക്ലസ്റ്ററുകൾ ആളുകൾ പരസ്പരം ഇടപഴകണമെന്ന് അവർ തീരുമാനിച്ചു അതിനാൽ അവർ അവരുടെ രക്തബന്ധ ഘടനയോ അല്ലെങ്കിൽ അവരുടെ വംശഘടനയോ വിപുലീകരിച്ച് അടുത്ത ഒരു അയൽപക്കത്തെ ഉണ്ടാക്കി അതനുസരിച്ച് ഗ്രൂപ്പിനെ ഒരു ക്ലസ്റ്ററായി വിഭജിക്കുകയും പുതിയ ഗ്രാമ ലേയൌട്ട് നന്നായി ആസൂത്രണം ചെയ്യുകയും ഗ്രാമീണർ അംഗീകരിക്കുകയും ചെയ്യുന്നു ഗ്രാമവാസികൾ സ്വന്തമായി വീടുകൾ രൂപകൽപ്പന ചെയ്തിട്ടുണ്ട് അതുകൊണ്ടു പാർപ്പിട യൂണിറ്റുകൾ നന്നായി പരിപാലിക്കുന്നു ചെലവ് വളരെ കുറവായിരുന്നു അതിന് അക്കാലത്ത് 56000 ഇന്ത്യൻ രൂപ മാത്രമാണ് ആയത് കൂടാതെ 40 പാർപ്പിട യൂണിറ്റുകൾ വൈദ്യുതീകരിക്കുകയും ടെലിഫോൺ സൌകര്യം നൽകുകയും പുനർനിർമ്മാണത്തിലും പുനരധിവാസ പ്രക്രിയയിലും ആളുകൾ പങ്കെടുക്കുകയും ചെയ്തു തീരുമാനമെടുക്കൽ പ്രക്രിയയിൽ ഏർപ്പെട്ടിരിക്കുന്ന ആളുകൾ അവർ സ്വന്തം വീടുകൾ രൂപകൽപ്പന ചെയ്യുന്നു ഈ വീടുകൾ നിർമ്മിക്കുന്നതിന് 2000 രൂപ നൽകിയ ധനസഹായം മുസ്ലീങ്ങൾ ഹരിജന്മാർക്ക് ഭൂമി നൽകി പകരം ഹരിജന്മാർ അവരുടെ അധ്വാനം നൽകി കൂടാതെ ഓരോ വീട്ടിൽ നിന്നും ഓരോ അംഗവും അവരുടെ അധ്വാനവും നിർമ്മാണ സാമഗ്രികൾ എന്നിവ നൽകണം പ്രാദേശിക നിർമ്മാണ വസ്തുക്കളായ വെയിലിൽ ഉണക്കിയ ഇഷ്ടികകൾ ഖിപ്പ് വൈക്കോൽ ബാബൂൾ മരത്തിന്റെ ശാഖകൾ എന്നിവ അവർ ഉപയോഗിച്ചു സ്ത്രീകളും പങ്കെടുത്തു ഈ പദ്ധതികളിൽ ആളുകൾ വളരെ സംതൃപ്തരായിരുന്നു പ്രത്യേകിച്ചും പാർപ്പിടം വളരെ നല്ല ജലവിതരണം ഒരു ഭുങ്കയുടെ വില ഏകദേശം 22000 ഓരോ പാർപ്പിട യൂണിറ്റിന്റെയും ചെലവ് 55000 7 മാസത്തിനുള്ളിൽ മുഴുവൻ പ്രോജക്റ്റും പൂർത്തിയായി അവർ ഗ്രാമീണരുടെ രൂപകൽപ്പനയിൽ പ്രാദേശിക നൈപുണ്യം അധ്വാനം ഭൂമി കെട്ടിടസാമഗ്രികൾ പണം എന്നിവ ഉപയോഗിച്ചു അവർക്ക് മികച്ച ഗ്രാമതല സംഘടന ഉണ്ടായിരുന്നു അവർ പരിശീലന പരിപാടി നടത്തി നിരീക്ഷണം നടത്തി അതിനാൽ അവർക്ക് കുറഞ്ഞ ചിലവിൽ സാമൂഹികമായി സ്വീകാര്യവും ഭൂകമ്പത്തെ പ്രതിരോധിക്കുന്നതുമായ കെട്ടിടം നിർമ്മിക്കുവാൻ സാധിച്ചു മറ്റൊന്ന് ഭുജിൽ നിന്ന് 85 കിലോമീറ്റർ അകലെയുള്ള ബിറ്റാ ഗ്രാമത്തിലെ ഉടമസ്ഥർ നയിക്കുന്ന സമീപനമാണ് മൊത്തം ജനസംഖ്യ 1000 ആണ് ഇവിടെ നിലവിലുള്ള ലേയൌട്ട് ആയിരുന്നു ഇത് നിങ്ങൾക്ക് കാണാൻ കഴിയും അവർക്ക് ചില വാണിജ്യ സ്റ്റോപ്പുകൾ കെട്ടിടം ഭൂവിനിയോഗം റെസിഡൻഷ്യൽ മഞ്ഞ കളറിൽ ചില പൊതുസ്ഥലങ്ങൾ അർദ്ധ പൊതുസ്ഥലങ്ങൾ എന്നിവയുണ്ട് ഈ 3 ഗ്രാമങ്ങളിൽ ഏറ്റവും വലിയ ഗ്രാമമായിരുന്നു ഇത് ഇതാണ് വില്ലേജ് ബസ് സ്റ്റോപ്പ് ഇവിടെ ധാരാളം ബൻഷാലി ബൈഷ്നാബ് ഗഡ്ബി ധാരാളം കമ്മ്യൂണിറ്റികളുടെ വിതരണം നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും ഇപ്പോൾ ഗ്രാമങ്ങളുടെ തൊഴിൽ വിതരണം അവർ കൂടുതലും ഉംകൃഷിക്കാരും കാർഷിക തൊഴിലാളികളുമാണ് ചിലർ സ്വയംതൊഴിലാളികളാണ് കൂലിത്തൊഴിലാളികളും അവിടെയുണ്ട് കച്ചവടക്കാർ 12 വ്യാപാരികളാണ് ചില ആളുകൾ 26 14 സമ്പന്നരാണ് അവർക്ക് 10000 രൂപയിൽ കൂടുതൽ വരുമാനമുണ്ട് ചിലർ ദരിദ്രരാണ് ഏകദേശം 33 ഇത് കാണിക്കുന്നത് പക്ക ഹൌസ് അല്ലെങ്കിൽ കോൺക്രീറ്റ് വീട് തകർന്നുവെന്നാണ് എന്നാൽ ഭൂഗാസ് ഭൂകമ്പത്തിന്റെ ആഘാതം കൂടാതെ അവിടെത്തന്നെ തുടരുന്നു ഇവിടെ നിങ്ങൾക്ക് നാശനഷ്ടത്തിന്റെ തോത് കാണാൻ കഴിയും വിവിധ വിഭാഗങ്ങളിൽ ഭാഗികമായി ബാധിച്ചതും വീടുകൾ വിദ്യാഭ്യാസ സൌകര്യങ്ങളും ആരോഗ്യ സൌകര്യങ്ങളും പഞ്ചായത്തും അതിനാൽ ആളുകൾക്ക് സർക്കാരിൽ നിന്ന് പണം ലഭിക്കുകയും അവർ സ്വന്തം വീട് പുനർനിർമ്മിക്കുകയും ചെയ്തു അവരുടെ കൂടി പണവും അതിൽ ചേർത്തു ഭൂകമ്പത്തെത്തുടർന്ന് നിർമ്മിച്ച താക്കാർ വീട് ഇതാ ഗ്രാമത്തിൽ 153 മീറ്റർ കണക്ഷനുകൾ ഉണ്ടായിരുന്നു നിലവിൽ മൂന്ന് ടാങ്കറുകൾ ജലവിതരണം നൽകി സർക്കാർ സ്കൂൾ പുനർനിർമിച്ചു പഞ്ചായത്ത് ഓഫീസും പുനർനിർമിച്ചു മത കെട്ടിടങ്ങൾ പുനർനിർമിച്ചു ആളുകൾ സ്വന്തമായി ഒരു വീട് പണിയുന്നു പക്ഷേ പരിശീലന പരിപാടി ഉണ്ടായിരുന്നില്ല ആളുകൾ യഥാർത്ഥത്തിൽ സർക്കാരിൽ നിന്ന് പണം കടമെടുത്തു കടം വാങ്ങിയിട്ടില്ല പക്ഷേ അവർക്ക് സർക്കാരിൽ നിന്നും അവർ നൽകിയ ബാക്കി പണത്തിന്റെ സഹായവും ലഭിച്ചു പണത്തിന്റെ ഉറവിടം 28 സ്വന്തം പണമാണ് ഔപചാരിക സ്ഥാപനങ്ങളിൽ നിന്നും അവർക്ക് വായ്പ ലഭിക്കുന്നു കമ്മ്യൂണിറ്റി മഹാജന്റെ community Mahajans അല്ലെങ്കിൽ സ്വന്തം പ്രാദേശിക രാജാക്കന്മാർ നൽകുന്ന പണം അതിനാൽ ഇവ വ്യത്യാസത്തിൽ നിന്നുള്ള ചില സാമ്പത്തിക സംഭാവനകളാണ് ഇരുണ്ട നിറത്തിൽ കാണുന്നത് 50000 അല്ലെങ്കിൽ 30000 ആയിരത്തിലധികം ആളുകൾ അവരുടെ സ്വന്തം വീടിനായി പണം ചിലവഴിക്കുന്ന താണ് ഇവിടെ അവർ സ്വന്തമായി അധ്വാനത്തിന്റെ സംഭാവനയാണ് ഭൂരിഭാഗം ആളുകളും സ്വന്തം അധ്വാനം നൽകിയിട്ടില്ല എന്നാൽ അവർ തൊഴിലാളികളെ വാടകയ്ക്ക് നിർത്തി പക്ഷേ കുറച്ച് ആളുകൾ പ്രത്യേകിച്ചും ഹരിജന്മാരും ചില താഴ്ന്ന ജാതിക്കാരും അവർ സ്വന്തം നിർമ്മാണത്തിനായി അധ്വാനം നൽകി ഇവിടെ അവർ സ്വന്തമായി ഒരു വീട് നിർമ്മിച്ചതു മുതൽ അവർ സംതൃപ്തരായി അവർ നിർമ്മിച്ചു അത് നന്നായി പരിപാലിക്കപ്പെടുന്നു മിക്ക വീടുകളും 4 മാസം മുതൽ 6 മാസം വരെ 50 പുനർനിർമ്മാണം നടന്നു മതിലിനായി അവർ കോൺക്രീറ്റ് ബ്ലോക്കുകൾ ഇഷ്ടികകൾ കല്ല് എന്നിവ ഉപയോഗിക്കുന്നു മേൽക്കൂര കൂടുതലും ആർസിസി മാത്രമല്ല ആളുകൾ പ്രാദേശിക ടൈലുകൾ ചെളി തറയ്ക്ക് 35 സിമൻറ് 73 എന്നിവ ഉപയോഗിക്കുന്നു ചെലവ് ഇത് ഉടമയിൽ നിന്ന് ഉടമയിലേക്ക് വ്യത്യാസപ്പെടുന്നു ചില സാഹചര്യങ്ങളിൽ ഇത് ഏറ്റവും താഴ്ന്നത് 50000 മുതൽ 1 ലക്ഷം വരെയാണ് എന്നാൽ ഇത് 1 5 യും അതിലും ഉയർന്ന ചിലവും മിക്ക കേസുകളിലും ആയിട്ടുണ്ട് പാർപ്പിടവും വൈദ്യുതിയും അനുസരിച്ച് ആളുകൾ വളരെ സംതൃപ്തരായിരുന്നു പക്ഷേ പൊതു അടിസ്ഥാന സൌകര്യങ്ങളിൽ അവർ സന്തുഷ്ടരായിരുന്നില്ല ചിലർക്ക് സർക്കാരിൽ നിന്ന് പണം ലഭിച്ചു പക്ഷേ അത് ഉപയോഗിച്ചില്ല മറ്റ് ആവശ്യങ്ങൾക്കായി ഉപയോഗിച്ചു അവർക്ക് മോണിറ്ററിംഗ് കുറവാണ് മാത്രമല്ല ഉയർന്ന ക്ലാസ് ആളുകൾ വളരെ കുറവാണ് പക്ഷേ സർക്കാരിൽ നിന്ന് അവർക്ക് കൂടുതൽ സഹായം ലഭിക്കുന്നു അതേസമയം താഴ്ന്ന ജാതിക്കാരായ അവർ സംഖ്യാടിസ്ഥാനത്തിൽ ഭൂരിപക്ഷമാണെങ്കിലും ചില സർവേകൾ പ്രകാരം അവർക്ക് കുറഞ്ഞ സഹായം ലഭിക്കുന്നു അഭിയാൻ പറയുന്നതനുസരിച്ച് 60 വീടുകൾക്കു മാത്രമാണ് ഈ ഗ്രാമത്തിൽ ഭൂകമ്പ പ്രതിരോധം ഉള്ളത് പ്രാദേശിക വിഭവം ദുർബലമായ സംഘടനാ സജ്ജീകരണം അപര്യാപ്തമായ പരിശീലനം അപര്യാപ്തമായ നിരീക്ഷണം തീരുമാനമെടുക്കുന്നതിൽ ഉയർന്ന ജാതിക്കാരുടെ ആധിപത്യം അതിനാൽ അവർക്ക് ഉയർന്ന ചെലവിലുള്ള ദീർഘകാല ദുർബല ഘടനയുണ്ട് അവബോധത്തിന്റെ അഭാവം അതിനാൽ പ്രാദേശിക വിഭവങ്ങളുടെ വിനിയോഗം ഉപയോഗിക്കുന്നവർക്ക് കുറഞ്ഞ ചെലവും സാമൂഹ്യ സ്വീകാര്യതയുമുള്ള കുറഞ്ഞ കാരണമാണ് ഇതാണ് ഞങ്ങൾ കണ്ടെത്തിയ മാതൃക അതിനാൽ കമ്മ്യൂണിറ്റി എൻജിഒ പങ്കാളിത്ത സമീപനമാണ് മറ്റുള്ളവയെ അപേക്ഷിച്ച് മികച്ച രീതിയിൽ പ്രവർത്തിച്ചതെന്ന് നമുക്ക് പറയാൻ കഴിയും വളരെ നന്ദി